നാം MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് കണ്ടെത്തിയിരുന്നു ഇത് സ്മോൾ സിഗ്നൽ ഡൊമൈനിൽ വിശകലനം ചെയ്യുകയും ചെയ്തിരുന്നു ഇനി ഇതിനു വേണ്ടി നമുക്ക് ഉചിതമായ ബയാസ് സർക്യൂട്ട് കണ്ടെത്തി ഇത് മുഴുമിപ്പിക്കണം കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൻറെ സ്മാൾ സിഗ്നൽ ചിത്രം ഇതാണ് MOS ട്രാൻസിസ്റ്ററിൻറെ ഗേറ്റ് സോഴ്സ് എന്നിവയുടെ ഇടയിൽ ii Rs എന്നിവ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ vgs ലോഡ് RL ഡ്രയിൻ സോഴ്സ് എന്നിവയ്ക്കിടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ട്രാൻസ് കണ്ടക്ടൻസ് സാധ്യമാക്കുന്ന Rm എന്നിവയുണ്ട് ഇനി സോഴ്സ് ഇവിടെ ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു സോഴ്സ് മുൻകൂട്ടി ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നതിനാൽ ഒരു ബയാസിംഗ് ടെക്നിക് തെരഞ്ഞെടുക്കാൻ എളുപ്പമാണ് ഇനി ഒപി ആംപ് ആവശ്യമായ രണ്ട് ബയാസിംഗ് വ്യവസ്ഥകൾ മാറ്റിവച്ചാൽ നമുക്ക് ഒന്നുകിൽ ഇതുപോലെയുള്ള ഡ്രയിൻ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള സോഴ്സ് ഫീഡ്ബാക്ക് ലഭിക്കും വ്യക്തമായും ഡ്രയിൻ ഫീഡ്ബാക്ക് കോൺഫിഗറേഷൻ ഇതിന് വളരെ അനുയോജ്യമാണ് ആദ്യമായി സോഴ്സ് ടെർമിനൽ ഗ്രൌണ്ടും ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു ഡ്രയിൻ ഗേറ്റ് എന്നിവയുടെ ഇടയിൽ നമുക്ക് റസിസ്റ്റൻസ് Rm ഉണ്ട് നമ്മൾ ബയാസിംഗ് ടെക്നിക് ആരംഭിച്ചപ്പോൾ നമുക്ക് പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനാൽ നാം ഡ്രയിൻ സോഴ്സും ആയി നേരിട്ട് ബന്ധിപ്പിച്ചു പക്ഷേ ഇത് ഇങ്ങനെ തന്നെ ആകണമെന്നില്ല ഈ ബ്രാഞ്ചിൽ നമുക്ക് എപ്പോഴും ഒരു റെസിസ്റ്റർ സ്ഥാപിക്കാം ഒന്നും തന്നെ സംഭവിക്കില്ല കാരണം ഇവിടെ ഗേറ്റ് കറൻറ് പൂജ്യമാണ് അതിനാൽ ബയാസിങ്ങിന് കുഴപ്പം വരില്ല അതുകൊണ്ട് ഇതാണ് ഇവിടെ അനുയോജ്യം ആയിട്ടുള്ളത് ഇതിൻറെ ഫലമായി വരുന്ന ടോപ്പോളജി ഡ്രയിൻ ഫീഡ്ബാക്ക് ബയാസോടു കൂടിയ സോഴ്സ് ആംപ്ലിഫയറിനു സമാനമായി കാണുന്നു അതിനാൽ നാം ഈ ബയാസിംഗ് ടെക്നിക് ഉപയോഗിക്കുന്നു മാറ്റം വരുത്തേണ്ട ഒരേയൊരു കാര്യം എന്തെന്നാൽ ഡ്രയിൻ ഗേറ്റ് എന്നിവ നേരിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കില്ല നമുക്ക് ഒരു റെസിസ്റ്റർ Rm ഇവിടെ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇത്രയും ചെയ്താൽ മതിയാകും ഇവിടെ നമുക്ക് ഒരു സപ്ലൈ വോൾട്ടേജ് ഒരു കറൻറ് സോഴ്സ് IO എന്നിവയുണ്ട് കൂടാതെ ഈ റെസിസ്റ്റൻസ് Rm ഇങ്ങനെ ബന്ധിപ്പിക്കുന്നു പതിവുപോലെ ഇൻപുട്ട് സോഴ്സ് കപ്പാസിറ്റർ C1 വഴി കപ്പിൾ ചെയ്ത എ സി ആണ് ലോഡ് കപ്പാസിറ്റർ C2 വഴി കപ്പിൾ ചെയ്ത എ സി ആണ് ഇതാണ് ഒരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിൻറെ മുഴുവൻ ചിത്രം ഇത് ഡ്രയിൻ ഫീഡ്ബാക്ക് ബയാസോടു കൂടിയ സോഴ്സ് ആംപ്ലിഫയർ പോലെ തന്നെയാണ് ഒരേയൊരു വ്യത്യാസം ഇവിടെ റെസിസ്റ്റൻസ് കറൻറ് സോഴ്സും ആയി പാരലൽ ആണ് എന്നുള്ളതാണ് കാരണം ഇതൊരു കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആണ് ഈ റെസിസ്റ്റൻസ് ഇവിടെ ഉള്ളിടത്തോളം റെസിസ്റ്റൻസ് സീരീസ് ആയുള്ള വോൾട്ടേജ് സോഴ്സ് ആയും ഇതിനെ തുല്യമായി കാണിക്കാം ഇത് ഒരേ സർക്യൂട്ടാണ് ഇതും ഡ്രയിൻ ഫീഡ്ബാക്ക് ബയാസോടു കൂടിയ കോമൺ സോഴ്സ് ആംപ്ലിഫയറും തമ്മിലുള്ള വ്യത്യാസം Rm വാല്യൂവിലും അതിൻറെ കൺസ്ട്രയിന്റ്സിലും ആണ് ഡ്രയിൻ ഫീഡ്ബാക്ക് ബയാസോടു കൂടിയ കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ കാര്യത്തിൽ Rm വാല്യൂ വലുതായിരുന്നു ഇവിടെ അത് അത്ര വലുതല്ല അതിനാൽ ഇത് വളരെ ലളിതമായ ഒരു സർക്യൂട്ടാണ് ഇത് ഇതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്നു തോന്നുന്നില്ല ഇതിൻറെ ഓപ്പറേറ്റിങ് പോയിൻറ് കണക്കാക്കാൻ സാധിക്കും C1 C2 എന്നിവ ഷോട്ട് ആണെന്ന് അനുമാനിച്ചു ഇതിൻറെ സ്മാൾ സിഗ്നൽ ചിത്രം എഴുതി ഗെയിൻ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും യഥാർത്ഥത്തിൽ നാം ഇത് മുൻപും ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ള കാര്യം C1 C2 എന്നിവ ഷോർട്ട് സർക്യൂട്ട് ആയി പെരുമാറുന്ന വാല്യൂസ് കണ്ടെത്തുക എന്നതാണ് ഇത് എളുപ്പം ആണ് ഞാൻ എല്ലാ സ്റ്റെപ്സും ചെയ്യുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിലുള്ള റെസിസ്റ്റൻസ് നാം മുൻപേ തന്നെ കണ്ടെത്തിയ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഇത് RLRm1gmRLആണെന്ന് നമുക്കറിയാം ഇത് കാണിക്കുന്നത് C2 കൃത്യമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് അതിനാൽ ഇത് ഷോട്ട് സർക്യൂട്ട് ആയി പെരുമാറുന്നു അതുപോലെ ഇവിടെയുള്ള റെസിസ്റ്റൻസ് Rout ആണ് കൂടാതെ ഇത് RsRm1gmRL ആണെന്ന് നമുക്കറിയാം C1 നു വേണ്ട നിബന്ധന എന്താണ് C1 നു കുറുകെയുള്ള സർക്യൂട്ട് ഡീആക്ടിവേറ്റ് ചെയ്താൽ Rs പ്ലസ് Rin കാണാൻ കഴിയും സർക്യൂട്ടിന് അകത്ത് Rin ഉണ്ട് C1 ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു Rs ഗ്രൌണ്ടിന് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് ഗ്രൌണ്ട് അതിനാൽ C1 നു കുറുകെ Rs പ്ലസ് Rin ഉണ്ട് കപ്പാസിറ്റർ C1 എന്നതിൻറെ റിയാക്ടൻസ് അതിനു കുറുകെയുള്ള റസിസ്റ്റൻസിനെക്കാളും വളരെ ചെറുതായിരിക്കണം അഥവാ C11ωRsRin അതുപോലെ C2 നു കുറുകെ RL കാണാൻ കഴിയും അതുപോലെ സർക്യൂട്ടിൻറെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് Rout കാണാൻ കഴിയും അതിനാൽ C21ωRoutRL അതായത് ഈ വശത്ത് RL കാണാൻ കഴിയും മറുവശത്ത് Rout കാണാൻ കഴിയും അതിനാൽ C2 അതിനെക്കാളും കൂടുതൽ ആയിരിക്കണം ഇനി സോഴ്സ് ഫീഡ്ബാക്ക് ബയാസ് ഉപയോഗിച്ചു കൂടി ഈ കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും വീണ്ടും കറൻറ് കൺട്രോൾഡ് കറൻറ് സോഴ്സിൻറെ സിഗ്നൽ ചിത്രം ഇതാണ് ബയാസിങ്ങിനു വേണ്ടി സോഴ്സ് ഫീഡ്ബാക്ക് ടെക്നിക് ഉപയോഗിച്ചാൽ നമുക്ക് IO സപ്ലൈ വോൾട്ടേജ് ചില ഫിക്സഡ് വോൾട്ടേജ് VGO എന്നിവ ഉണ്ടാകും ഇത് കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സിന് ഏറ്റവും അനുയോജ്യമായ ബയാസ് സർക്യൂട്ട് അല്ല പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് അറിയാൻ നമുക്ക് ഇത് ചെയ്യാം ആദ്യമായി ഇവിടെയുള്ള ഡ്രയിൻ സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല അതേ സമയം ഇവിടെ ഡ്രയിൻ VDD ആയി ബന്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഇത് സ്മാൾ സിഗ്നൽ ഗ്രൌണ്ട് ആണ് അതൊരു പ്രശ്നമാണ് പക്ഷേ നാം ഇത്തരം സന്ദർഭം മുൻപും നേരിട്ടിട്ടുണ്ട് ഇവിടെ സോഴ്സ് ഗ്രൌണ്ടിൽ അല്ല അതേസമയം ഇവിടെ സോഴ്സ് ഗ്രൌണ്ടിലാണ് അത് ഉറപ്പിക്കേണ്ടത് ഉണ്ട് നമുക്ക് അതൊക്കെ ചെയ്യാം ആദ്യമായി സപ്ലൈയിൽ നിന്നും VGO ഡിറൈവ് ചെയ്യേണ്ടതുണ്ട് അത് ചെയ്യാനായി നാം സാധാരണയായുള്ള റസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിക്കുന്നു ഇതിനുശേഷം ഇൻപുട്ട് ബയാസിനെ തടസ്സപ്പെടുത്താതെ ഗേറ്റുമായി ബന്ധിപ്പിക്കണം പതിവുപോലെ നാം എ സി കപ്ലിങ് ഉപയോഗിക്കുന്നു ഡ്രയിൻ നേരിട്ട് സപ്ലൈ വോൾട്ടേജും ആയി ബന്ധിപ്പിക്കാൻ സാധിക്കില്ല കാരണം അത് സ്മാൾ സിഗ്നൽ ചിത്രത്തിൽ ഡ്രയിനിനെ ഗ്രൌണ്ടും ആയി ഷോട്ട് ചെയ്യും അതിനാൽ പതിവു പോലെ ഒരു ബയാസ് റസിസ്റ്റർ RD വഴി ബന്ധിപ്പിക്കണം കൂടാതെ ലോഡ് റെസിസ്റ്റൻസ് ഡ്രയിൻ നോഡുമായി എ സി കപ്പിൾഡ് ആയിരിക്കണം ഇതിനെ C2 എന്ന് വിളിക്കാം അവസാനമായി ഇൻക്രിമെൻറൽ പിക്ചറിൽ ഗേറ്റിനും ഡ്രയിനിനും ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം വീണ്ടും എല്ലായിടത്തും നാം അനുമാനിച്ചിരിക്കുന്നത് ഇൻപുട്ട് സിഗ്നൽ പൂജ്യത്തെക്കാൾ കൂടിയ ഒരു ഫ്രീക്വൻസിയിൽ ആണ് അത് ഒരു ഡിസി ഇൻപുട്ട് അല്ല എന്നാണ് നാം ഡ്രയിൻ ഗേറ്റ് എന്നിവ ബന്ധിപ്പിക്കണം പക്ഷേ അത് നേരിട്ട് ചെയ്യരുത് കാരണം ഇത് ബയാസ് തടസ്സപ്പെടുത്തി ഡ്രയിൻ ഫീഡ്ബാക്ക് സൃഷ്ടിക്കും നാം ഇതുകൂടെ എ സി കപ്പിൾഡ് ചെയ്തു നാം ഒരു കപ്പാസിറ്റൻസ് സീരീസിൽ ബന്ധിപ്പിക്കുന്നു പക്ഷേ ചില സിഗ്നൽ ഫ്രീക്വൻസീസിൽ കപ്പാസിറ്റൻസ് ഷോട്ട് ആയി പെരുമാറുന്നു അതിനാൽ സിഗ്നൽ ഫ്രീക്വൻസിക്ക് ഗേറ്റിനും ഡ്രയിനിനും ഇടയിൽ Rm മാത്രം ബന്ധിപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ഇതാണ് Rm അവസാനമായി സോഴ്സ് ടെർമിനൽ ഗ്രൌണ്ട് ചെയ്തിരിക്കണം അത് എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയാം ഇതു നാം കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിരുന്നു നമുക്ക് ഒരു കപ്പാസിറ്റർ ഗ്രൌണ്ടും ആയി ബന്ധിപ്പിക്കാം ഇത് ഞാൻ കുറച്ചുകൂടി വൃത്തിയായി വരയ്ക്കട്ടെ ഇതാണ് ഇൻപുട്ട് സോഴ്സ് ട്രാൻസിസ്റ്ററിൻറെ ഗേറ്റും ആയി എസി കപ്പിൾഡ് ആയിരിക്കുന്നു സോഴ്സിൽ നിന്നും കറൻറ് സോഴ്സ് IO മറ്റൊരു കപ്പാസിറ്റർ ഉപയോഗിച്ച് ഗ്രൌണ്ടിലേക്ക് ബൈപ്പാസ് ചെയ്തിരിക്കുന്നു നമുക്ക് ഇവിടെ ഒരു ഡ്രയിൻ ബയാസ് റസിസ്റ്റർ RD റസിസ്റ്റൻസ് RL സപ്ലൈ വോൾട്ടേജ് VDD എന്നിവയുണ്ട് അവസാനമായി ട്രാൻസ് റെസിസ്റ്റൻസ് Rm കപ്പാസിറ്ററുമായി സീരീസിൽ ഉള്ളതാണ് ഇത് C1 C2 C3 C4 എന്നിവ നോക്കാം C1 C2 എന്നിവ നാം മുൻപേ കണക്കാക്കിയിരുന്നു C3 കോമൺ സോഴ്സ് ആംപ്ലിഫയറിന് ആവശ്യം ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് C4 ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല ഇത് ഒരു എക്സസൈസ് ആയി എടുത്ത് നിങ്ങൾ സ്വയം ചെയ്യുക ഇവിടെ അധികമായി രണ്ട് കമ്പണന്റ്സ് ഉണ്ട് ഗേറ്റിൽ നിന്നും ഗ്രൌണ്ടിലേക്ക് ഉള്ള R1 R2 ആണിത് അതായത് ഗേറ്റിനും ഗ്രൌണ്ടിനും ഇടയിൽ R1 || R2 ഉണ്ട് ആദ്യമായി R1 R2 എന്നിവ Rs നേക്കാൾ വളരെ വലുതായി തെരഞ്ഞെടുത്തു കൊണ്ട് ഇതിൻറെ ഫലം നിങ്ങൾക്ക് പൂർണ്ണമായും അവഗണിക്കാൻ കഴിയും അതിന് കഴിയാതെ വരുമ്പോൾ സമവാക്യത്തിൽ എവിടെയെല്ലാം Rs എന്ന് ഉണ്ടായിരുന്നുവോ അവിടെ എല്ലാം R1 || R2 || Rs എന്നു മാറ്റണം ഇതുകൂടാതെ ഡ്രയിൻ ബയാസ് സോഴ്സ് RD ഡ്രയിനിൽ നിന്നും ഗ്രൌണ്ടിലേക്ക് കൂടുതലായി റെസിസ്റ്റൻസ് വരുത്തും നമ്മുടെ അനാലിസിസിൽ എവിടെയെല്ലാം RL എന്ന് ഉണ്ടായിരുന്നുവോ അവിടെ എല്ലാം RL || RD എന്നു മാറ്റണം പ്രവൃത്തിയിൽ R1 R2 എന്നിവ വളരെ വലുതാക്കി പിന്നീട് അവയെ അവഗണിക്കാൻ ബുദ്ധിമുട്ടില്ല അതേസമയം RD വളരെ വലുതാക്കുക എന്നത് സാധ്യമല്ല കാരണം ഇങ്ങനെയാകുമ്പോൾ കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കൂടുതലാകും അതിനാൽ വളരെ വലിയ സപ്ലൈ വോൾട്ടേജ് ഉപയോഗിക്കേണ്ടിവരും ഇത് സർക്യൂട്ടിനെ കുറച്ചൊക്കെ സ്വാധീനിക്കും പക്ഷേ ഇതൊരു കറൻറ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആയതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡ് റെസിസ്റ്റൻസിനെ അധികം സ്വാധീനിക്കരുത് അതിനാൽ ഇത് സ്വാധീനിക്കപ്പെടും പക്ഷേ ട്രാൻസ് കണ്ടക്ടൻസ് വലുതായതിനാൽ അധികമായിട്ടുണ്ടാവില്ല ഇതാണ് സോഴ്സ് ഫീഡ്ബാക്ക് ബയാസിങ്ങോട് കൂടിയ പുതിയ കറൻറ്റ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് കൂടാതെ രണ്ട് ബയാസിംഗ് ടെക്നിക്സ് ആയ ഡ്രയിൻ ഫീഡ്ബാക്ക് സോഴ്സ് ഫീഡ്ബാക്ക് എന്നിവ യോജിപ്പിക്കാം എന്നും നാം കാണിച്ചിരിക്കുന്നു